അതിനാൽ മോഡലിംഗ് പ്രശ്നങ്ങൾക്ക് ഗ്രാഫുകൾ വളരെ ഉപയോഗപ്രദമായ ഗണിത ഘടനയാണെന്ന് ഞങ്ങൾ കണ്ടു പക്ഷേ ഒരു ഗ്രാഫ് സൈദ്ധാന്തിക പ്രശ്നം പരിഹരിക്കുന്നതിന് ഞങ്ങൾ ഒരു അൽഗോരിതം എഴുതുമ്പോൾ ഞങ്ങളുടെ അൽഗോരിതം ഗ്രാഫിനെ പ്രതിനിധീകരിക്കാനും കൈകാര്യം ചെയ്യാനും ഒരു മാർഗം ആവശ്യമാണ് അതിനാൽ ഈ പ്രഭാഷണത്തിൽ ഞങ്ങൾ അത് പരിശോധിക്കും അതിനാൽ ഒരു ഗ്രാഫ് ഒരു കൂട്ടം അരികുകളാൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ലംബങ്ങളുടെയോ നോഡുകളുടെയോ ഒരു കൂട്ടമാണെന്ന് ഓർമ്മിക്കുക നമുക്ക് രണ്ട് തരം അരികുകൾ പരോക്ഷമല്ലാത്ത അരികുകൾ സംവിധാനം ചെയ്ത അരികുകൾ എന്നിവ ഉണ്ടാകാം ഒരു പരോക്ഷമായ എഡ്ജ് രണ്ട് ലംബങ്ങൾക്കിടയിലുള്ള ഒരു വരിയായി വരയ്ക്കുന്നു ഇത് v v പ്രൈം ബന്ധിപ്പിച്ചിരിക്കുന്നു എന്ന വസ്തുതയെ പ്രതിനിധീകരിക്കുന്നു ഈ എഡ്ജിനെ നമ്മൾ വി കോമ വി പ്രൈം അല്ലെങ്കിൽ വി പ്രൈം കോമ വി എന്ന് വിളിക്കുന്നു എന്നത് പ്രശ്നമല്ല ഒരു എഡ്ജ് മാത്രമേയുള്ളൂ മറുവശത്ത് ഒരു സംവിധാനം ചെയ്ത ഗ്രാഫിൽ ഞങ്ങൾ യഥാർത്ഥത്തിൽ ദിശയെ ഒരു അരികുമായി ബന്ധപ്പെടുത്തി അതിനാൽ നമുക്ക് v മുതൽ v പ്രൈം വരെ ഒരു എഡ്ജ് വരയ്ക്കാം ഇത് ഞങ്ങളുടെ എഡ്ജ് സെറ്റിൽ ഒരു ജോഡി v കോമ v പ്രൈമുകളായി ആരംഭിക്കുന്ന വെർട്ടെക്സ് v ആണെന്നും എഡ്ജിന്റെ അവസാനം v പ്രൈം എന്നും എഴുതുന്നു ഇത് v പ്രൈം മുതൽ v വരെ ഒരു എഡ്ജ് ഉള്ളതിന് തുല്യമല്ല അത് v പ്രൈം കോമ v എന്ന് എഴുതപ്പെടും അതിനാൽ എഡ്ജ് കാര്യങ്ങൾ പരാമർശിക്കുമ്പോൾ ഡയറക്റ്റഡ് ഗ്രാഫുകൾ വെർട്ടീസുകളുടെ ക്രമം തുടർന്ന് പരോക്ഷമായ ഗ്രാഫ് വെർട്ടീസുകളുടെ ജോഡി മാത്രമാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നത് പ്രശ്നമല്ല അത് v മുതൽ v പ്രൈം അല്ലെങ്കിൽ v പ്രൈം മുതൽ v വരെ ആണ് ഇത് ഈ രണ്ട് ജോഡി വെർട്ടീസുകൾ തമ്മിലുള്ള ഒരു കണക്ഷൻ മാത്രമാണ് അതിനാൽ ഒരു റൂട്ട് കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട രണ്ട് സാധാരണ പ്രശ്നങ്ങൾ ഞങ്ങൾ കണ്ടു ഇത് വഴിതിരിച്ചുവിടാത്തതും സംവിധാനം ചെയ്തതുമായ ഗ്രാഫുകൾക്കായി പ്രതിനിധീകരിക്കാം അതിനാൽ ഒരു സംവിധാനം ചെയ്ത ഗ്രാഫിൽ ഞങ്ങൾ v 0 മുതൽ v 5 വരെയുള്ള പാത തിരയുന്നു അതായത് ഓരോ ജോഡി v 0 v 1 v 1 v2 etcetera ഇവ ഞങ്ങളുടെ ഗ്രാഫിലെ നേരിട്ടുള്ള അരികുകളാണ് അതേ സമയം നമുക്ക് ഒരേ ഗ്രാഫ് വഴിതിരിച്ചുവിടാൻ കഴിയും വീണ്ടും ഞങ്ങൾ ഒരു പാതയ്ക്കായി തിരയുന്നു അവിടെ നമ്മൾ v 0 ൽ ആരംഭിക്കുന്നു ഒപ്പം അടുത്തുള്ള എല്ലാ ജോഡി v 0 മുതൽ v 1 വരെയും v 1 മുതൽ v 2 വരെ ഒരു എഡ്ജ് ആണ് ടാർഗെറ്റ് വെർടെക്സ് v 5 ൽ ഞങ്ങൾ അവസാനിക്കും അതിനാൽ നമുക്ക് അമൂർത്തമായി നിലനിൽക്കുന്ന പ്രശ്നം നമുക്ക് വഴിതിരിച്ചുവിടാത്ത ഗ്രാഫുകളിൽ ഉറച്ചുനിൽക്കാം കാരണം ഈ ഘട്ടത്തിൽ നമുക്ക് ഒരു പരോക്ഷമായ ഗ്രാഫ് നൽകിയിട്ടുണ്ട് കൂടാതെ ഞങ്ങൾക്ക് ഒരു സോഴ്സ് വെർട്ടെക്സും vs ഒരു ടാർഗെറ്റ് വെർട്ടെക്സ് vt ഉം നൽകുകയും ഞങ്ങൾ ചോദിച്ചു ഒരു വഴിയുണ്ടോ എന്ന് ഈ ഗ്രാഫിൽ vs മുതൽ vt വരെ പോകുക ഇപ്പോൾ മുമ്പത്തെ ഗ്രാഫിൽ ഞങ്ങൾ ചെയ്തതും ഒരു മനുഷ്യനായി നമുക്ക് ചെയ്യാൻ കഴിയുന്നതും ഗ്രാഫ് പരിശോധിച്ച് കാണുക അത്തരമൊരു പാത നിങ്ങൾക്ക് ദൃശ്യപരമായി തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ v s ഉം v t ഉം ബന്ധിപ്പിച്ചിരിക്കുന്നതായി കാണുക പക്ഷേ ഒരു ഗ്രാഫ് കൈകാര്യം ചെയ്യുന്നതിനായി ഞങ്ങൾ ഒരു അൽഗോരിതം എഴുതുമ്പോൾ ചിത്രം നോക്കുന്നതിനുള്ള അൽഗോരിതം എങ്ങനെ ലഭിക്കും അതിനാൽ ഞങ്ങൾക്ക് ഒരു ഗ്രാഫ് ഒരു ചിത്രമാണ് ഗ്രാഫ് വളരെ സങ്കീർണ്ണമല്ലെങ്കിൽ സാഹചര്യം മനസിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ചിത്രം എളുപ്പത്തിൽ നോക്കാം പക്ഷേ ഈ ചിത്രം ഒരു അൽഗോരിതം എങ്ങനെ ലഭ്യമാക്കും ഞങ്ങളുടെ അൽഗോരിതം ഇൻപുട്ട് ആയി ഗ്രാഫ് നൽകുന്ന ഈ ചിത്രത്തെ പ്രതിനിധീകരിക്കുന്നതിന് ഞങ്ങൾക്ക് ഒരു മാർഗ്ഗം ആവശ്യമാണ് അതിനാൽ നമുക്ക് ചില അനുമാനങ്ങൾ നടത്താം ഞങ്ങൾ പരിഗണിക്കുന്ന ഏതൊരു ഗ്രാഫിലും പരിമിതമായ ഒരു കൂട്ടം ലംബങ്ങൾ മാത്രമേയുള്ളൂ അതിനാൽ ജീവിതം ലളിതമാക്കാൻ n വെർട്ടീസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലംബങ്ങൾക്ക് 1 2 വരെ n എന്ന് പേരിടാം അതിനാൽ ഞങ്ങളുടെ വെർട്ടീസുകൾ എല്ലായ്പ്പോഴും n വരെ 1 2 3 4 ആയിരിക്കും അതിനാൽ ഇപ്പോൾ ഒരു എഡ്ജ് ഒരു ജോഡി സംഖ്യകളാണ് ഞാൻ കോമ j അതിനാൽ i j എന്നിവ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ജോഡികൾ റെക്കോർഡുചെയ്യുക എന്നതാണ് ഞങ്ങൾക്ക് ആദ്യത്തെ പ്രാതിനിധ്യം അതിനാൽ ഇതിനെ ഒരു സമീപസ്ഥ മാട്രിക്സ് എന്ന് വിളിക്കുന്നു ഈ മാട്രിക്സിൽ A i j 1 ആണെന്ന് ഞങ്ങൾ പറയുന്നു i j ഒരു എഡ്ജ് ആണെങ്കിൽ മാത്രം അതിനാൽ അത്തരമൊരു മാട്രിക്സ് എഴുതുമ്പോൾ മുമ്പത്തെപ്പോലെ ഒരു ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 1 മുതൽ 3 വരെ 10 വരെ ലംബങ്ങളുടെ പേരുമാറ്റും കാരണം ഈ ഗ്രാഫിൽ യഥാർത്ഥത്തിൽ 10 ലംബങ്ങളുണ്ട് തുടർന്ന് ഞങ്ങൾ ഈ മാട്രിക്സ് എഴുതുന്നു തൽക്ഷണത്തിനായി 1 ൽ നിന്ന് ഒരു എഡ്ജ് ഉണ്ടെന്ന് പറയുന്നു 3 മുതൽ 3 വരെ എൻട്രി 1 ആണ് 1 മുതൽ 5 വരെ എഡ്ജ് ഇല്ല അതിനാൽ എൻട്രി എ 1 5 0 ആണ് അതിനാൽ ഗ്രാഫുകളിൽ കാണുന്ന ഓരോ അരികിലും ഈ രീതിയിൽ ഉദാഹരണത്തിന് A 4 5 എന്ന് പറയുക ഗ്രാഫിൽ A 4 5 1 എന്ന് പറയുന്ന ഒരു എൻട്രി ഞങ്ങൾ കണ്ടെത്തും ഇപ്പോൾ ഇത് പരോക്ഷമല്ലെന്ന് ഓർമ്മിക്കുക അതിനാൽ ഒരു എഡ്ജ് 5 4 5 ഉണ്ടെങ്കിൽ ഒരു എഡ്ജ് 5 4 ഉം ഉണ്ട് അതിനാൽ യഥാർത്ഥത്തിൽ പൊരുത്തപ്പെടുന്ന എഡ്ജ് 5 ഉണ്ടെന്ന് ഞങ്ങൾ കാണും അതിനാൽ ഈ ഗ്രാഫ് യഥാർത്ഥത്തിൽ ഈ സമമിതിയാണ് അതിനാൽ ഇത് യഥാർത്ഥത്തിൽ സമമിതിയിലായിരിക്കണം ഈ ഡയഗണൽ അതിനാൽ ഞാൻ വരിയുടെ മുകളിൽ 1 കണ്ടാൽ ഞാൻ വരിയുടെ ചുവടെ 1 കാണും കാരണം 8 9 നമ്മുടെ പരോക്ഷമായ അരികുകൾക്ക് തുല്യമാണ് അതിനാൽ ഇത് ഒരു സമീപസ്ഥ മാട്രിക്സാണ് അതിനാൽ അടുത്തുള്ള മാട്രിക്സ് ഉപയോഗിച്ച് നമുക്ക് എന്തുചെയ്യാൻ കഴിയും ശരി ഉദാഹരണത്തിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എല്ലാ അയൽക്കാരെയും ഒരു ശീർഷകം കണ്ടെത്തുക എന്നതാണ് നമുക്ക് ഒരു ശീർഷകത്തിന്റെ അയൽക്കാർ വേണമെങ്കിൽ i വരി നോക്കാനും ആ വരിയിലെ എല്ലാ എൻട്രികളും 1 നോക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഉദാഹരണത്തിന് വെർട്ടെക്സ് 4 ന്റെ അയൽക്കാരെ നോക്കാൻ ഞങ്ങൾ താൽപ്പര്യപ്പെടുന്നു ഞങ്ങൾ 4 വരി പിന്നെ 4 എൻട്രി 4 കോമ 1 സൂചിപ്പിക്കുന്നത് 4 1 ഒരു അരികാണോ അല്ലയോ എന്ന് സൂചിപ്പിക്കുന്നു അത് അതിനാൽ നമുക്ക് നമ്മുടെ ശീർഷകത്തിന്റെ 1 ലഭിക്കുന്നു തുടർന്ന് ഞങ്ങൾ അതിനായി നടക്കുന്നു തുടർന്ന് അടുത്തത് 4 കോമ 5 ആണ് അതിനാൽ 5 ഒരു അയൽവാസിയാണ് അടുത്തത് ഒരു 8 ആണ് അതിനാൽ 8 ഒരു അയൽവാസിയാണ് അതിനാൽ ഒരു ശീർഷകത്തിന്റെ അയൽക്കാരെ കണ്ടെത്തുന്നതിന് i എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന വരിയിലേക്ക് ഞങ്ങൾ പോകുന്നു ഞങ്ങൾ വരി ഇടത്തുനിന്ന് വലത്തോട്ട് സ്കാൻ ചെയ്യുന്നു അനുബന്ധ നിര ഒരു അയൽവാസിയാണ് ഇപ്പോൾ ഞങ്ങൾ എങ്ങനെ പാത കണ്ടെത്തും പിന്നെ നമുക്ക് ഇപ്പോൾ അയൽക്കാരെയും അയൽക്കാരുടെ അയൽക്കാരെയും നോക്കാം അതിനാൽ ഞങ്ങളുടെ പ്രശ്നത്തിലെ സോഴ്സ് വെർട്ടെക്സിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത് നിങ്ങൾ നമ്പറിംഗ് നോക്കിയാൽ ഞാൻ തരട്ടെ ന്യൂഡൽഹി 1 എന്ന് ലേബൽ ചെയ്ത ശീർഷകത്തിനും ത്രിവാൻഡ്രം 10 എന്ന് ലേബൽ ചെയ്തിട്ടുള്ള വെർട്ടെക്സിനും തുല്യമാണ് കൂടാതെ ഞങ്ങൾക്ക് അറിയാൻ കഴിയുമോ വെർട്ടെക്സ് 1 ന്യൂഡൽഹി മുതൽ വെർട്ടെക്സ് 10 തിരുവനന്തപുരം വരെ അതിനാൽ നമ്മൾ ചെയ്യുന്നത് ഞങ്ങൾ ശീർഷകം 1 ൽ ആരംഭിച്ച് 1 ന്റെ അയൽക്കാരെ എങ്ങനെ കണ്ടെത്താമെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഓരോ ശീർഷകത്തിലും 1 ന്റെ ഏതെങ്കിലും അയൽക്കാരനെ ഓരോന്നായി എത്തിച്ചേരാമെന്ന് ഞങ്ങൾ പറയും അതിനാൽ ഞങ്ങൾ ഇതിനകം ആരംഭിച്ച ശീർഷകം 1 ൽ നിന്ന് ആരംഭിക്കുന്നു നമുക്ക് അവിടെ എത്താൻ കഴിയും കാരണം ഞങ്ങൾ അവിടെ ആരംഭിക്കുന്നു ഇപ്പോൾ ഇത് അയൽവാസികളാണെന്ന് ഞങ്ങൾ സ്കാൻ ചെയ്യുന്നു തുടർന്ന് ഈ 3 അയൽക്കാരായ 2 3 4 എന്നിവ അവിടെ ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടെത്തുന്നു അതിനാൽ നിങ്ങൾ 1 ൽ ആരംഭിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് തീർച്ചയായും 2 3 4 എന്നിവയിലെത്താൻ കഴിയും അതിനാൽ ഈ വരികളെ പച്ചനിറത്തിലാക്കാം അതിനാൽ 1 ൽ നിന്ന് ഒരു ഘട്ടത്തിൽ നമുക്ക് 2 3 4 എന്നിവയിലെത്താൻ കഴിയുമെന്ന് ഞങ്ങൾ സൂചിപ്പിച്ചു ഇപ്പോൾ 2 3 4 എന്നിവയിൽ നിന്ന് എത്താൻ കഴിയുന്ന എന്തും 1 ൽ നിന്ന് എത്തിച്ചേരാം അതിനാൽ ഞങ്ങൾ ഇപ്പോൾ പര്യവേക്ഷണം ചെയ്ത അയൽവാസികളിലേക്ക് ഓരോന്നായി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവരുടെ അയൽക്കാരെ നോക്കുകയും ചെയ്യുന്നു അതിനാൽ ഞങ്ങൾ 2 ന്റെ അയൽവാസികളിലേക്ക് മാറി അതിനാൽ 2 ന് 2 അയൽക്കാർ മാത്രമേയുള്ളൂ 1 ഉം 3 ഉം 1 ഉം 3 ഉം ഇതിനകം 1 ൽ നിന്ന് എത്തിച്ചേരാവുന്നതായി അടയാളപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാറുന്നു ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്നും ചെയ്യുന്നില്ല അതിനാൽ 2 ൽ നിന്ന് എത്തിച്ചേരാവുന്ന നഗരങ്ങൾ ഞങ്ങളുടെ പ്രശ്നത്തിലേക്ക് ഒരു വിവരവും ചേർക്കുന്നില്ല അതിനാൽ നിങ്ങൾ 3 ലേക്ക് നീങ്ങുക അതുപോലെ 3 ന് 1 2 എന്നിവയിലെത്താൻ കഴിയും ഇവ രണ്ടും ഞാൻ ഇതിനകം സന്ദർശിച്ചതായി പട്ടികപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ 1 ൽ നിന്ന് എത്തിച്ചേരാം അതിനാൽ നമുക്ക് വീണ്ടും 4 ലേക്ക് പോകാം കാരണം 3 ന് ഒന്നുമില്ല ഞങ്ങളോട് പറയാൻ പുതിയത് ഇപ്പോൾ ഞങ്ങൾ വെർട്ടെക്സ് 4 ൽ എത്തുമ്പോൾ ഞങ്ങളോട് പുതിയതായി എന്തെങ്കിലും പറയാനുണ്ട് കാരണം ഇപ്പോൾ 4 ൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായും 1 ൽ എത്താൻ കഴിയുമെന്ന് ഇത് പറയുന്നു ഞങ്ങൾക്കറിയാം തുടർന്ന് 5 8 എന്നിവയിലും എത്തിച്ചേരാം അതിനാൽ ഇപ്പോൾ നമ്മൾ ഞങ്ങളുടെ പ്രാതിനിധ്യത്തിൽ 5 ഉം 8 ഉം പച്ച നിറമുള്ളവയാണെന്ന് സൂചിപ്പിക്കും ഇവ 1 മുതൽ പരോക്ഷമായ ഒരു പാതയിലൂടെ എത്തിച്ചേരാം എന്ന് സൂചിപ്പിക്കാൻ എനിക്ക് 1 മുതൽ 4 വരെയും പിന്നീട് 4 മുതൽ 5 8 വരെയും പോകാം അതിനാൽ ഞാൻ ഇതിനകം 1 2 3 4 പ്രോസസ്സ് ചെയ്തിട്ടുണ്ട് അതിനാൽ അടുത്തതായി ഞാൻ വെർട്ടെക്സ് 5 നോക്കുന്നത് 5 കാണുന്നതിന് നമുക്ക് ഏതെങ്കിലും പുതിയ അയൽക്കാരനെ നൽകും അതിനാൽ നിങ്ങൾ 5 നോക്കുക ഇപ്പോൾ 5 ന് ഞങ്ങൾ ഇതിനകം 4 കണ്ട ഒരു അയൽവാസിയുണ്ട് പക്ഷേ ഇതിന് ഒരു പുതിയ അയൽക്കാരൻ 6 ഉം മറ്റ് പുതിയ അയൽക്കാരും 7 ഉണ്ട് അതിനാൽ ഞാൻ 5 പ്രോസസ്സ് ചെയ്താൽ എനിക്ക് 6 ഉം 7 ഉം ലഭിക്കും ഇപ്പോൾ എനിക്ക് 6 7 അല്ലെങ്കിൽ 8 ൽ ഏതെങ്കിലും ഒന്ന് നോക്കാം അതിനാൽ നമുക്ക് 8 നോക്കാം അതിനാൽ 8 ന് അയൽവാസികളുണ്ട് 4 ഞാൻ ഇതിനകം കണ്ടതാണ് 6 ഞാൻ ഇതിനകം കണ്ടിട്ടുണ്ട് പക്ഷേ അതിന് പുതിയ അയൽക്കാരൻ 9 ഉണ്ട് അത് ഞാൻ കണ്ടിട്ടില്ല അതിനാൽ 1 മുതൽ ഒടുവിൽ എത്തിച്ചേരാവുന്ന അയൽക്കാരുടെ പട്ടികയിലേക്ക് ഞാൻ 9 ചേർക്കുന്നു ഇപ്പോൾ ഞാൻ 6 നോക്കുകയാണെങ്കിൽ 6 ന് 5 7 8 9 എന്നിവയിലെത്താൻ കഴിയുമെന്ന് ഞാൻ കണ്ടെത്തി ഇവയെല്ലാം ഇതിനകം അയൽവാസികളാണെന്ന് അറിയപ്പെടുന്നവ 1 മുതൽ എത്തിച്ചേരാം അതിനാൽ എനിക്ക് പുതിയ വിവരങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഞാൻ 7 ലേക്ക് പോകുമ്പോൾ എനിക്ക് 5 6 എന്നിവയിലെത്താൻ കഴിയും അത് എത്തിച്ചേരാനാകുമെന്ന് എനിക്ക് ഇതിനകം അറിയാം അതിനാൽ പുതിയ വിവരങ്ങളൊന്നുമില്ല അവസാനമായി ഇതുവരെ പരിശോധിച്ചിട്ടില്ലാത്ത ശീർഷകം 9 ആണ് അതിനാൽ 9 ൽ നിന്ന് എനിക്ക് അറിയാവുന്ന 6 ൽ എത്താൻ കഴിയും 8 എനിക്കറിയാം കൂടാതെ ഒരു പുതിയ ശീർഷകം 10 ഉണ്ട് അതിനാൽ എനിക്ക് 9 ൽ നിന്ന് 10 ൽ എത്താൻ കഴിയും അതിനാൽ ഞാൻ 10 ഉം ഒരു തവണയും അടയാളപ്പെടുത്തുന്നു ഞാൻ 10 എന്ന് അടയാളപ്പെടുത്തി എന്റെ പ്രശ്നം പരിഹരിച്ചു 1 മുതൽ 10 വരെ പോകാൻ ഒരു വഴിയുണ്ടെന്ന് ഞാൻ കണ്ടെത്തി പക്ഷേ അയൽവാസികളുടെ ഗണം ആസൂത്രിതമായി വികസിപ്പിക്കുന്നത് എനിക്ക് ഒരു സമയം ഒരു ലെവലിൽ എത്താൻ കഴിയും അതിനാൽ ഇത് ഞങ്ങൾക്ക് കുറച്ച് അൽഗോരിതം നൽകുന്നു ദീർഘനേരം പോകുമ്പോൾ ഞങ്ങൾ ഈ അൽഗോരിതം കൂടുതൽ കൃത്യമാക്കും എന്നാൽ ഈ പ്രാതിനിധ്യം ഒരു ക്രമീകരിക്കുന്ന സി മാട്രിക്സായി ഉപയോഗിക്കുന്നതിലൂടെ ഞങ്ങൾക്ക് ഈ മാട്രിക്സ് എടുത്ത് ഞങ്ങൾക്ക് ഉള്ള പ്രശ്നം പര്യവേക്ഷണം ചെയ്യാൻ ഉപയോഗിക്കാം ഞങ്ങൾക്ക് ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയുന്ന ന്യായമായ നടപടിക്രമമായി ഇത് നിയോഗിക്കുക അതിനാൽ ഈ അൽഗോരിതം കൂടുതൽ കൃത്യമാക്കുന്നതിന് ഞങ്ങൾ ഈ അൽഗോരിതം കൂടുതൽ ചിട്ടയാക്കേണ്ടതുണ്ട് സന്ദർശിച്ച വെർട്ടീസുകളുടെ ട്രാക്ക് സൂക്ഷിക്കേണ്ടതുണ്ട് അതിനാൽ ഞങ്ങൾ അതേ ശീർഷകം വീണ്ടും പര്യവേക്ഷണം ചെയ്യരുത് അതിനാൽ സർക്കിളിൽ ചുറ്റിനടന്ന് ഒരേ പ്രശ്നം വീണ്ടും വീണ്ടും ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതിനാൽ ഗ്രാഫുകളിലെ ഏറ്റവും അടിസ്ഥാന പ്രശ്നമായ ഈ പ്രത്യേക പ്രശ്നം പരിഹരിക്കുന്നതിന് രണ്ട് അടിസ്ഥാന തന്ത്രങ്ങളുണ്ടെന്ന് ഇത് മാറും അത് എന്തിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കണ്ടെത്തും അതിനാൽ ഞങ്ങൾ നടപ്പിലാക്കിയ തന്ത്രമാണ് ആദ്യം വീതി എന്ന് വിളിക്കുന്നത് അതായത് നമ്മൾ ആരംഭിക്കുന്ന ശീർഷകത്തിന്റെ എല്ലാ അയൽക്കാരെയും ഒരു പടി അകലെയുള്ള എല്ലാ അയൽക്കാരിൽ നിന്നും പര്യവേക്ഷണം ചെയ്യുന്നു എല്ലാ അയൽക്കാരും രണ്ട് പടി അകലെ പോകുന്നു ഓണാണ് ഒരു ദിശയിൽ കഴിയുന്നിടത്തോളം പോകാനുള്ള മറ്റൊരു തന്ത്രം അതിനാൽ നിങ്ങൾ ഒരു അയൽക്കാരനെ വെർട്ടെക്സ് ആരംഭിക്കുമ്പോൾ തിരഞ്ഞെടുക്കുന്നു തുടർന്ന് നിങ്ങൾ പുതിയ ശീർഷകത്തിന്റെ ഒരു അയൽക്കാരനെ തിരഞ്ഞെടുക്കുന്നു തുടർന്ന് നിങ്ങൾ ആ പുതിയ ശീർഷകത്തിന്റെ ഒരു അയൽക്കാരനെ തിരഞ്ഞെടുക്കുന്നു ഞങ്ങൾക്ക് ഒരു പുതിയ ശീർഷകം കണ്ടെത്താൻ കഴിയില്ല തുടർന്ന് നിങ്ങൾ തിരിച്ചുപോയി പര്യവേക്ഷണം ചെയ്യുക മുമ്പത്തെ വെർട്ടീസുകളുടെ മറ്റ് അയൽക്കാർ തുടങ്ങിയവയും ഇതിനെ ആദ്യം വീതി എന്ന് വിളിക്കുന്നു അതിനാൽ ഈ അൽഗോരിതങ്ങൾ പിന്നീടുള്ള ഒരു പ്രഭാഷണത്തിൽ വിശദമായി കാണും അതിനാൽ നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ മാട്രിക്സിലെ മിക്ക എൻട്രികളും യഥാർത്ഥത്തിൽ 0 ആണ് അതിനാൽ നിങ്ങൾക്ക് n ലംബങ്ങളുണ്ടെങ്കിൽ ഈ മാട്രിക്സുകളുടെ വലുപ്പം n ചതുരമാണെന്ന് ഓർക്കുക കാരണം എനിക്ക് n വരികളും n നിരകളും ഉണ്ട് ഇപ്പോൾ നിങ്ങൾ ഒരു വഴിതിരിച്ചുവിടാത്ത ഗ്രാഫിലെ അരികുകളുടെ എണ്ണം കണക്കാക്കുകയാണെങ്കിൽ ഓരോ ജോഡി വെർട്ടീസുകളും ഒരു എഡ്ജ് ആകാം ഞങ്ങൾ സാധാരണയായി സ്വയം ലൂപ്പുകൾ അനുവദിക്കുന്നില്ല ഞങ്ങൾ സാധാരണയായി വെർട്ടെക്സ് i നായി i മുതൽ i വരെയുള്ള അരികുകൾ പരിഗണിക്കില്ല വ്യത്യസ്ത ജോഡികളുടെ എണ്ണം n തിരഞ്ഞെടുക്കുക 2 ആണ് നിങ്ങൾക്ക് രണ്ട് ലംബങ്ങൾ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന വഴികളാണിത് അതിനാൽ നിങ്ങൾ എല്ലാ ജോഡികളും തിരഞ്ഞെടുക്കുക തുടർന്ന് ഇത് n മൈനസ് 1 ബൈ 2 ആയി മാറുന്നു അതിനാൽ ഇതാണ് അടിസ്ഥാനപരമായ പൊതുവായ വസ്തുത അതിനാൽ ഞങ്ങൾക്ക് ഇനി n ചതുര അരികുകളുണ്ടാകില്ല നിങ്ങൾ n ചതുര അരികുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ മാട്രിക്സിലെ പല എൻട്രികളും 1 ആയിരിക്കും പക്ഷേ മിക്ക സാഹചര്യങ്ങളിലും അരികുകളുടെ എണ്ണം n സ്ക്വയറിനേക്കാൾ വളരെ കുറവാണ് അതിനാൽ ഇത് ഒരു അർത്ഥത്തിൽ പാഴാക്കുന്ന പ്രാതിനിധ്യമാണ് കാരണം 1 ലെ പോസിറ്റീവ് വിവരങ്ങൾ പിടിച്ചെടുക്കുന്നതിനായി ഞങ്ങൾ ധാരാളം 0 റെക്കോർഡുചെയ്യുന്നു ഈ 1 കൾ സമമിതിയാണെന്നതും ഓർക്കുക അതിനാൽ എന്റെ വരിയെക്കുറിച്ചുള്ള ഓരോ 1 നും അതിനാൽ ഞാൻ ഈ ഡയഗണൽ വരയ്ക്കുകയാണെങ്കിൽ ഡയഗണലിന് മുകളിലുള്ള ഓരോ 1 ഉം എനിക്ക് ഡയഗണോണിന് താഴെയുള്ള ഒരു സമമിതി 1 ഉണ്ട് അതിനാൽ യഥാർത്ഥത്തിൽ ഈ മാട്രിക്സിന്റെ പകുതി ഉപയോഗശൂന്യമാണ് ഈ ആദ്യ പകുതി മതിയെന്ന് എനിക്കറിയാമെങ്കിൽ ഈ ആദ്യ പകുതിയിൽ എനിക്ക് കൂടുതലും 0 ഉണ്ടാകും അതിനാൽ നമുക്ക് മറ്റൊരു പ്രാതിനിധ്യത്തെക്കുറിച്ച് ചിന്തിക്കാം അവിടെ പ്രസക്തമായ വിവരങ്ങൾ മാത്രം ഞങ്ങൾ സൂക്ഷിക്കുന്നു അതിനാൽ ഇതിനെ ഒരു സമീപസ്ഥല പട്ടിക എന്ന് വിളിക്കുന്നു അതിനാൽ ഞങ്ങൾ ഒരു സമീപസ്ഥല പട്ടികയിൽ ചെയ്യുന്നത് ഓരോ ശീർഷകത്തിനും അതിന്റെ അയൽക്കാരുടെ പട്ടികയ്ക്കും ഞങ്ങൾ വ്യക്തമായി പരിപാലിക്കുന്നു എന്നതാണ് അതിനാൽ ഒന്ന് 2 3 4 എന്നിവയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതായി ഞങ്ങൾ കാണുന്നു അതിനാൽ 1 ലേക്ക് ബന്ധിപ്പിച്ച പട്ടിക 2 3 4 ആണെന്ന് ഞങ്ങൾ പറയുന്നു അതുപോലെ 2 ഉം 1 ഉം 3 ഉം ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഞങ്ങൾക്ക് ലിസ്റ്റ് ബന്ധിപ്പിച്ചിരിക്കുന്നു 1 ഉം 3 ഉം അതിനാൽ ഇതാണ് നോഡ് ഇവ അയൽവാസികളാണ് അതിനാൽ ഇപ്പോൾ ഈ പ്രാതിനിധ്യത്തിൽ എനിക്ക് നോഡ് ഉള്ളപ്പോഴെല്ലാം ഞാൻ ആ നോഡിനായി ആ എൻട്രിയിലേക്ക് പോകുകയും ഞാൻ ലിസ്റ്റ് നോക്കുകയും എനിക്ക് അയൽക്കാരെ സ്കാൻ ചെയ്യാനും എനിക്ക് അയൽക്കാരുടെ എണ്ണത്തിന് ആനുപാതികമായി അത് നേടാനും കഴിയും അതിനാൽ എനിക്ക് ഉപയോഗശൂന്യമായ വിവരങ്ങളൊന്നും ആവശ്യമില്ലാത്ത ഒരു നേട്ടമുണ്ട് കാരണം 0 എല്ലാം ഞാൻ ഇവിടെ സംഭരിക്കാത്തത് സമീപസ്ഥല മാട്രിക്സ് ആണ് വെർട്ടെക്സ് ബന്ധിപ്പിക്കാത്ത മാനദണ്ഡ വിവരങ്ങൾ ഞാൻ സൂക്ഷിക്കുന്നില്ല അതിനാൽ ഈ രണ്ട് പ്രാതിനിധ്യങ്ങൾക്കും അവയുടെ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട് അടുത്തുള്ള മാട്രിക്സിൽ ഞങ്ങൾക്ക് കൂടുതൽ സ്ഥലവും തുടർന്ന് സമീപസ്ഥല പട്ടികയും ആവശ്യമാണ് എന്നാൽ ചില ചോദ്യങ്ങൾക്ക് സമീപസ്ഥല പട്ടികയേക്കാൾ ഒരു സമീപസ്ഥല മാട്രിക്സിന് ഉത്തരം നൽകാൻ എളുപ്പമാണ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ വെർട്ടെക്സ് ജെ വെർട്ടെക്സ് വശത്തിന്റെ അയൽവാസിയാണോ ഞങ്ങൾ മാട്രിക്സിൽ ഒരു എൻട്രികൾ തെളിയിക്കേണ്ടതുണ്ട് A i j 1 ആണോ എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നു മറുവശത്ത് ഒരു സമീപസ്ഥല പട്ടികയിൽ j എന്നത് എനിക്ക് അയൽവാസിയാണെന്ന് കണ്ടെത്തണമെങ്കിൽ ഞങ്ങൾ എനിക്കുള്ള എൻട്രിയിലേക്ക് പോയി മുഴുവൻ ലിസ്റ്റും സ്കാൻ ചെയ്യേണ്ടതുണ്ട് അതിനാൽ മാട്രിക്സും ഇതും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് സോർട്ടിംഗ് മൊഡ്യൂളിന്റെ തുടക്കത്തിൽ ഞങ്ങൾ നടത്തിയ യഥാർത്ഥ ചർച്ചയ്ക്ക് സമാനമാണിത് അതിനാൽ ഇവിടെ നമുക്ക് ഈ എൻട്രി A i j യൂണിറ്റ് സമയത്തിൽ അന്വേഷിക്കാൻ കഴിയും അതേസമയം i യുടെ അയൽവാസികളുടെ എണ്ണത്തിന് അനുസൃതമായി i അല്ലെങ്കിൽ അടുത്തുള്ള അയൽവാസിയാണോ അല്ലെങ്കിൽ അടുത്തുള്ള പട്ടികയാണോ എന്ന് കണ്ടെത്താൻ ഞങ്ങൾക്ക് ആവശ്യമാണ് മറുവശത്ത് നിങ്ങൾക്ക് i യുടെ എല്ലാ അയൽക്കാരെയും കണ്ടെത്തണമെങ്കിൽ അടുത്തുള്ള മാട്രിക്സിൽ എത്ര അയൽക്കാർ ആവശ്യമാണെന്നത് പരിഗണിക്കാതെ തന്നെ ഞങ്ങൾ മുഴുവൻ വരിയും സ്കാൻ ചെയ്യണം അതിനാൽ ഗ്രാഫിൽ n വെർട്ടെക്സ് ഉണ്ട് ഒരു നോഡിന് രണ്ടോ മൂന്നോ അയൽക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽപ്പോലും ഈ എൻട്രികളിൽ ഏതാണ് യഥാർത്ഥ അയൽക്കാർ എന്ന് നിർണ്ണയിക്കാൻ വരിയിലെ എല്ലാ എൻട്രികളും നോക്കേണ്ടതുണ്ട് മറുവശത്ത് ഞങ്ങൾ കണ്ടതുപോലെ ഒരു സമീപസ്ഥല പട്ടികയിൽ അയൽക്കാർ കൃത്യമായി രേഖപ്പെടുത്തുന്നു അതിനാൽ അയൽക്കാരെ സ്കാൻ ചെയ്യാനുള്ള സമയം അയൽക്കാർക്ക് നേരിട്ട് മുൻഗണന നൽകുന്നു അതിനാൽ ഓരോ ശീർഷകത്തിലും അയൽവാസികളുടെ എണ്ണം വളരെ കുറവാണെങ്കിൽ അയൽക്കാരായി വേഗത്തിൽ നൽകാനുള്ള സമീപസ്ഥല പട്ടിക അതേസമയം ചെറിയ സംഖ്യ കണ്ടെത്തുന്നതിന് നിങ്ങൾക്ക് സമീപമുള്ള മാട്രിക്സ് സ്കാൻ ഓർഡർ എൻട്രികൾ ആവശ്യമാണ്